വൈ പീപ്പിൾ ഇൻവെൻറ് എന്ത് കൊണ്ട് ആളുകൾ കണ്ടെത്തലുകൾ നടത്തുന്നു വൈ പീപ്പിൾ ഇൻവെൻറ് എന്ത് കൊണ്ട് ആളുകൾ കണ്ടെത്തലുകൾ നടത്തുന്നു കണ്ടെത്തലുകൾ ഉണ്ടാകുന്നതിന് അതിന്റെതായ കാരണങ്ങളുണ്ട് കണ്ടെത്തലുകൾ ഉണ്ടാകുന്നതിന് അതിന്റെതായ കാരണങ്ങളുണ്ട് അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി ഉയർന്നുവരാം അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി ഉയർന്നുവരാം ചിലപ്പോൾ അത് നിങ്ങളുടെ വിനോദത്തിന്റെ ഭാഗമായി സന്തോഷം നൽകുന്ന കാര്യമായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ വിനോദത്തിന്റെ ഭാഗമായി സന്തോഷം നൽകുന്ന കാര്യമായിരിക്കാം ഒരു പക്ഷേ അത് ആരുടെയെങ്കിലും വേദന നീക്കം ചെയ്തതിന്റെ ഫലമായിവരാം ഒരു പക്ഷേ അത് ആരുടെയെങ്കിലും വേദന നീക്കം ചെയ്തതിന്റെ ഫലമായിവരാം ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുന്നു നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുന്നു നിങ്ങൾ അപ്രകാരം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ ഒരു കണ്ടെത്തൽ പുറത്തുവരാം നിങ്ങൾ അപ്രകാരം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ ഒരു കണ്ടെത്തൽ പുറത്തുവരാം ചിലപ്പോൾ അത് നടത്തപെടുന്ന ഒരു ഗവേഷണത്തിന്റെ ഭാഗമായി പുറത്തുവരാം ചിലപ്പോൾ അത് നടത്തപെടുന്ന ഒരു ഗവേഷണത്തിന്റെ ഭാഗമായി പുറത്തുവരാം കണ്ടെത്തലുകൾ യാദൃശ്ചികമായും സംഭവിക്കാം അതായത് ആകസ്മികമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ കണ്ടെത്തലുകൾ യാദൃശ്ചികമായും സംഭവിക്കാം അതായത് ആകസ്മികമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ പേറ്റന്റ് ചെയ്യുന്നതിന് അതിന്റെതായ കാരണങ്ങളുണ്ട് പേറ്റന്റ് ചെയ്യുന്നതിന് അതിന്റെതായ കാരണങ്ങളുണ്ട് എല്ലാ കണ്ടുപിടുത്തങ്ങളും പേറ്റന്റ് ചെയ്യപെടന്നുവയല്ല എല്ലാ കണ്ടുപിടുത്തങ്ങളും പേറ്റന്റ് ചെയ്യപെടന്നുവയല്ല ആശയങ്ങളെയും ആശയപ്രകടനങ്ങളെയും പരിരക്ഷിക്കുന്ന മറ്റ് തരത്തിലുള്ള ബൌദ്ധിക സ്വത്തവകാശങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം ആശയങ്ങളെയും ആശയപ്രകടനങ്ങളെയും പരിരക്ഷിക്കുന്ന മറ്റ് തരത്തിലുള്ള ബൌദ്ധിക സ്വത്തവകാശങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റന്റ് ആവശ്യവുമില്ല എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റന്റ് ആവശ്യവുമില്ല കാരണം അവയെ മറ്റ് അവകാശങ്ങളിലൂടെ പരിരക്ഷിക്കാവുന്നതാണ് കാരണം അവയെ മറ്റ് അവകാശങ്ങളിലൂടെ പരിരക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവ പേറ്റന്റ് ആവശ്യമില്ലാത്ത കണ്ടുപിടുത്തങ്ങളാകാം അല്ലെങ്കിൽ അവ പേറ്റന്റ് ആവശ്യമില്ലാത്ത കണ്ടുപിടുത്തങ്ങളാകാം അതിനാൽ പേറ്റന്റ് ഗ്രാന്റിന് അർഹതയില്ലാത്ത ചെറിയ കണ്ടത്തെലുകൾക്കോ ചെറിയ മെച്ചപ്പെടുത്തലുകൾക്കോ പേറ്റന്റ് ആവശ്യമില്ല അതിനാൽ പേറ്റന്റ് ഗ്രാന്റിന് അർഹതയില്ലാത്ത ചെറിയ കണ്ടത്തെലുകൾക്കോ ചെറിയ മെച്ചപ്പെടുത്തലുകൾക്കോ പേറ്റന്റ് ആവശ്യമില്ല അതിനാൽ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റന്റ് ലഭിക്കില്ല മാത്രമല്ല എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റന്റുകൾ ആവശ്യവുമില്ല അതിനാൽ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റന്റ് ലഭിക്കില്ല മാത്രമല്ല എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റന്റുകൾ ആവശ്യവുമില്ല ഒരു കണ്ടുപിടുത്തത്തിന്റെ ഉപയോഗക്ഷമത അനുസരിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ പേറ്റന്റ് ആക്ടിൽ പരാമർശിക്കുന്നത് പോലെ വ്യാവസായിക ഉപയോഗത്തിന് പ്രാപ്തമായ കണ്ടെത്തലുകളെയോ മാത്രം പേറ്റന്റ് ചെയ്താൽ മതിയാകും ഒരു കണ്ടുപിടുത്തത്തിന്റെ ഉപയോഗക്ഷമത അനുസരിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ പേറ്റന്റ് ആക്ടിൽ പരാമർശിക്കുന്നത് പോലെ വ്യാവസായിക ഉപയോഗത്തിന് പ്രാപ്തമായ കണ്ടെത്തലുകളെയോ മാത്രം പേറ്റന്റ് ചെയ്താൽ മതിയാകും അതായത് ഭുരിഭാഗത്തിന് സംരക്ഷണം നല്കുന്നതായിരിക്കണം അത് എന്നർത്ഥം അതായത് ഭുരിഭാഗത്തിന് സംരക്ഷണം നല്കുന്നതായിരിക്കണം അത് എന്നർത്ഥം നിങ്ങൾക്ക് അതിന്റെ ഒന്നിലധികം പകർപ്പുകൾ നിർമ്മിക്കാനും കഴിയണം നിങ്ങൾക്ക് അതിന്റെ ഒന്നിലധികം പകർപ്പുകൾ നിർമ്മിക്കാനും കഴിയണം നിങ്ങൾ പേറ്റന്റ് എടുക്കുന്നതിന് മുമ്പ് അതിന് ഒരു മാർക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കും നിങ്ങൾ പേറ്റന്റ് എടുക്കുന്നതിന് മുമ്പ് അതിന് ഒരു മാർക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കും അതിനർത്ഥം പേറ്റന്റിംഗ് ഒരു ബിസിനസ്സ് സംബന്ധിയായ തീരുമാനനമാണ് അതിനർത്ഥം പേറ്റന്റിംഗ് ഒരു ബിസിനസ്സ് സംബന്ധിയായ തീരുമാനനമാണ് പേറ്റന്റിംഗിൽ മുൻകൂട്ടി നടത്തേണ്ട ചിലവുകളുണ്ട് പേറ്റന്റിംഗിൽ മുൻകൂട്ടി നടത്തേണ്ട ചിലവുകളുണ്ട് അത് ചിലപ്പോൾ ഗണ്യമായവയാണ് അത് ചിലപ്പോൾ ഗണ്യമായവയാണ് കൂടാതെ നിങ്ങൾ ഒന്നിലധികം അധികാരപരിധിയിലേക്ക് പേറ്റന്റ് എടുക്കാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ അതായതു നിങ്ങൾ ലോകമെമ്പാടും പേറ്റന്റുകൾ ഫയൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതായത് നിങ്ങൾ സുപ്രധാന അധികാരപരിധികളെയെല്ലാം ഉൾപ്പെടുത്തി ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരു ചിലവേറിയ പ്രക്രിയ ആയിരിക്കും കൂടാതെ നിങ്ങൾ ഒന്നിലധികം അധികാരപരിധിയിലേക്ക് പേറ്റന്റ് എടുക്കാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ അതായതു നിങ്ങൾ ലോകമെമ്പാടും പേറ്റന്റുകൾ ഫയൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതായത് നിങ്ങൾ സുപ്രധാന അധികാരപരിധികളെയെല്ലാം ഉൾപ്പെടുത്തി ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരു ചിലവേറിയ പ്രക്രിയ ആയിരിക്കും അതിനാൽ നിങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തൽ നടത്തുന്ന വ്യക്തി സാധാരണയായി മുൻകൂർ ചിലവ് എത്രയാകും എന്ന് നോക്കാറുണ്ട് അതിനാൽ നിങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തൽ നടത്തുന്ന വ്യക്തി സാധാരണയായി മുൻകൂർ ചിലവ് എത്രയാകും എന്ന് നോക്കാറുണ്ട് മുൻകൂർ ചിലവ് നോക്കുമ്പോൾ അത് ഫയലിംഗ് ചിലവ് മാത്രമല്ല അത് പേറ്റന്റ് അനുവദിക്കപ്പെട്ട ശേഷം ഉണ്ടാകാനിടയുള്ള ചിലവുമാകാം മുൻകൂർ ചിലവ് നോക്കുമ്പോൾ അത് ഫയലിംഗ് ചിലവ് മാത്രമല്ല അത് പേറ്റന്റ് അനുവദിക്കപ്പെട്ട ശേഷം ഉണ്ടാകാനിടയുള്ള ചിലവുമാകാം അതിനോടൊപ്പം പേറ്റന്റ് അനിവദിക്കപ്പെടാനുള്ള ചിലവ് അതായത് പ്രോസിക്യൂഷൻ ചിലവ് ഉണ്ട് അതിനോടൊപ്പം പേറ്റന്റ് അനിവദിക്കപ്പെടാനുള്ള ചിലവ് അതായത് പ്രോസിക്യൂഷൻ ചിലവ് ഉണ്ട് കൂടാതെ അറ്റകുറ്റപണികൾക്കായുള്ള ചിലവും ഇതിൽ ഉൾപ്പെടും കൂടാതെ അറ്റകുറ്റപണികൾക്കായുള്ള ചിലവും ഇതിൽ ഉൾപ്പെടും പേറ്റന്റുകൾ 20 വർഷം വരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പേറ്റന്റുകൾ 20 വർഷം വരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ വർഷവും അതിന്റെ പുതുക്കൽ ഫീയും കൊടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാ വർഷവും അതിന്റെ പുതുക്കൽ ഫീയും കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് വരവ് ചിലവ് വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പേറ്റന്റിങ് നടത്തുന്നത് അതായത് വരവ് ചിലവ് വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പേറ്റന്റിങ് നടത്തുന്നത് അതിനാൽ എന്തെങ്കിലും പേറ്റന്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് വരവ് ചിലവ് സംബന്ധിച്ചുള്ള വിശകലനം നടത്തേണ്ടതായിട്ടുണ്ട് അതിനാൽ എന്തെങ്കിലും പേറ്റന്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് വരവ് ചിലവ് സംബന്ധിച്ചുള്ള വിശകലനം നടത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് കണ്ടെത്തൽഘട്ട നടപടി ഒരാവശ്യകതയാണ് നമുക്ക് കണ്ടെത്തൽഘട്ട നടപടി ഒരാവശ്യകതയാണ് പേറ്റന്റ് അനുവദിച്ചികിട്ടുന്നതിന് ആവശ്യമായ പേറ്റന്റബിലിറ്റിയുടെ രണ്ടാമത്തെ ആവശ്യകതയാണ് കണ്ടെത്തൽഘട്ട നടപടി എന്ന ഈ ആവശ്യകത പേറ്റന്റ് അനുവദിച്ചികിട്ടുന്നതിന് ആവശ്യമായ പേറ്റന്റബിലിറ്റിയുടെ രണ്ടാമത്തെ ആവശ്യകതയാണ് കണ്ടെത്തൽഘട്ട നടപടി എന്ന ഈ ആവശ്യകത ഇന്ത്യ കണ്ടെത്തൽഘട്ട ആവശ്യകത അവതരിപ്പിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ കുറച്ചു കൂടി ലളിതമായിരുന്നു ഇന്ത്യ കണ്ടെത്തൽഘട്ട ആവശ്യകത അവതരിപ്പിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ കുറച്ചു കൂടി ലളിതമായിരുന്നു അവർ അതിനെ പുതിയതും പ്രയോജനപ്രദവുമായ ആവശ്യകതയെന്ന് വിളിക്കാറുണ്ടായിരുന്നു അവർ അതിനെ പുതിയതും പ്രയോജനപ്രദവുമായ ആവശ്യകതയെന്ന് വിളിക്കാറുണ്ടായിരുന്നു പുതിയതും പ്രയോജനപ്രദവുമായ ആവശ്യകത എന്ന പഴയ നിർവചനം ഒരു നിർമ്മാണ രീതിയെ കേന്ദ്രീകരിച്ചായിരുന്നു പുതിയതും പ്രയോജനപ്രദവുമായ ആവശ്യകത എന്ന പഴയ നിർവചനം ഒരു നിർമ്മാണ രീതിയെ കേന്ദ്രീകരിച്ചായിരുന്നു യുണൈറ്റഡ് കിംഗ്ഡത്തിൽ നിന്നുള്ള നിരവധി കേസുകൾ നിർമ്മാണരീതി എന്ന പദപ്രയോഗത്തിന്റെ വ്യാഖാനത്തിലൂടെ ഇത് ഏത് തരത്തിലുള്ള നിർമ്മാതാക്കളുടെ രീതിയായിരുന്നുവെന്നും സാങ്കേതിക വിദ്യയേയും അതിന്റെ സങ്കിർണതകളെയും എങ്ങെനെ അവർക്കുൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞുതരുന്നുണ്ട് യുണൈറ്റഡ് കിംഗ്ഡത്തിൽ നിന്നുള്ള നിരവധി കേസുകൾ നിർമ്മാണരീതി എന്ന പദപ്രയോഗത്തിന്റെ വ്യാഖാനത്തിലൂടെ ഇത് ഏത് തരത്തിലുള്ള നിർമ്മാതാക്കളുടെ രീതിയായിരുന്നുവെന്നും സാങ്കേതിക വിദ്യയേയും അതിന്റെ സങ്കിർണതകളെയും എങ്ങെനെ അവർക്കുൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞുതരുന്നുണ്ട് ഇംഗ്ലണ്ടിലെ കോഡുകൾ വെൻഡിബിലിറ്റി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ കോഡുകൾ വെൻഡിബിലിറ്റി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നിർമ്മാതാവ് വിൽക്കാവുന്നതോ വിൽക്കപ്പെടാവുന്നതോ ആയ ഉത്പന്നങ്ങളിൽ കലാശിക്കുന്നുണ്ടോ എന്ന് മനസിലാക്കുന്നു അത് നിർമ്മാതാവ് വിൽക്കാവുന്നതോ വിൽക്കപ്പെടാവുന്നതോ ആയ ഉത്പന്നങ്ങളിൽ കലാശിക്കുന്നുണ്ടോ എന്ന് മനസിലാക്കുന്നു നിങ്ങളുടെ കണ്ടത്തലുകൾ വിൽക്കപ്പെടാവുന്നതാകണം എന്നതുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ട് നിങ്ങളുടെ കണ്ടത്തലുകൾ വിൽക്കപ്പെടാവുന്നതാകണം എന്നതുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ട് അതായത് പേറ്റന്റിങ് നടത്തപെടുന്നതിന് അതിന്റെതായ കാരണങ്ങളുണ്ട് അതായത് പേറ്റന്റിങ് നടത്തപെടുന്നതിന് അതിന്റെതായ കാരണങ്ങളുണ്ട് പേറ്റന്റിംഗ് ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ വരുമാനത്തിന് കാരണമാകുമോ എന്നതും ഒരു ഘടകമായിരിക്കണം പേറ്റന്റിംഗ് ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ വരുമാനത്തിന് കാരണമാകുമോ എന്നതും ഒരു ഘടകമായിരിക്കണം പ്രയോജനത്വം ഒരു കണ്ടുപിടുത്തത്തെ ബിസിനസ്സുമായി ബന്ധിപ്പിക്കുന്നു പ്രയോജനത്വം ഒരു കണ്ടുപിടുത്തത്തെ ബിസിനസ്സുമായി ബന്ധിപ്പിക്കുന്നു ഒരിക്കൽ അതിന്റെ ഉപയോഗക്ഷമത പ്രകടമാക്കിയാൽ അതിനെ ഒന്നിലധികം പകർപ്പുകളിൽ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കണ്ടെത്തൽ വീണ്ടും ആവർത്തിക്കാൻ കഴിയും ഒരിക്കൽ അതിന്റെ ഉപയോഗക്ഷമത പ്രകടമാക്കിയാൽ അതിനെ ഒന്നിലധികം പകർപ്പുകളിൽ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കണ്ടെത്തൽ വീണ്ടും ആവർത്തിക്കാൻ കഴിയും ഒന്നിലധികം പകർപ്പുകളിൽ നിങ്ങൾ എന്തിനാണ് ഒരു കണ്ടുപിടുത്തം ആവർത്തിക്കുന്നത് ഒന്നിലധികം പകർപ്പുകളിൽ നിങ്ങൾ എന്തിനാണ് ഒരു കണ്ടുപിടുത്തം ആവർത്തിക്കുന്നത് കാരണം വിപണിയിൽ അതിന് വലിയ ആവശ്യകതയുണ്ട് എന്നത് തന്നെ കാരണം വിപണിയിൽ അതിന് വലിയ ആവശ്യകതയുണ്ട് എന്നത് തന്നെ അതായത് പ്രയോജനത്വം അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ പ്രയോഗിക്കപ്പെടുക എന്ന പേറ്റന്റബിലിറ്റി ടെസ്റ്റിന്റെ ഭാഗമാണ് ഒരു കണ്ടെത്തലിന് ആവശ്യകത ഉണ്ടോ എന്ന് നമ്മളെ അറിയിക്കുന്നത് അതായത് പ്രയോജനത്വം അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ പ്രയോഗിക്കപ്പെടുക എന്ന പേറ്റന്റബിലിറ്റി ടെസ്റ്റിന്റെ ഭാഗമാണ് ഒരു കണ്ടെത്തലിന് ആവശ്യകത ഉണ്ടോ എന്ന് നമ്മളെ അറിയിക്കുന്നത് ഇതിലൂടെയാണ് പേറ്റന്റ് നിയമവും ബിസിനസും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നത് ഇതിലൂടെയാണ് പേറ്റന്റ് നിയമവും ബിസിനസും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നത് ആത്യന്തികമായി ഇത് വാണിജ്യപരമായ ഒരു ആഹ്വാനമാണ് ആത്യന്തികമായി ഇത് വാണിജ്യപരമായ ഒരു ആഹ്വാനമാണ് അതായത് കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യണോ അതിന് വേണ്ടുന്ന വരവ് ചിലവ് വിശകലനം ചെയ്യൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വാണിജ്യ രൂപരേഖ തയാറാക്കുക മുതലായ കാര്യങ്ങൾ പേറ്റന്റ് ചെയ്യണോ എന്ന ആഹ്വാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് ചെയ്യണ്ടതാണ് അതായത് കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യണോ അതിന് വേണ്ടുന്ന വരവ് ചിലവ് വിശകലനം ചെയ്യൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വാണിജ്യ രൂപരേഖ തയാറാക്കുക മുതലായ കാര്യങ്ങൾ പേറ്റന്റ് ചെയ്യണോ എന്ന ആഹ്വാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് ചെയ്യണ്ടതാണ് ലംഘന പ്രവർത്തനങ്ങൾ ലംഘന പ്രവർത്തനങ്ങൾ പേറ്റന്റിംഗും ബിസിനസും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാനുള്ള ഒരു മാർഗമാണിത് പേറ്റന്റിംഗും ബിസിനസും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാനുള്ള ഒരു മാർഗമാണിത് പേറ്റന്റ് പരിരക്ഷയുള്ള ഒരു കണ്ടെത്തൽ ആരെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ അത് ഒരു ലംഘന പ്രവർത്തനമാണ് പേറ്റന്റ് പരിരക്ഷയുള്ള ഒരു കണ്ടെത്തൽ ആരെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ അത് ഒരു ലംഘന പ്രവർത്തനമാണ് അപ്രകാരം ആരെങ്കിലും പേറ്റന്റ് പരിരക്ഷയുള്ള ഒരു കണ്ടത്തെൽ തന്റെ സ്വന്തം എന്ന രീതിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ തടയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അപ്രകാരം ആരെങ്കിലും പേറ്റന്റ് പരിരക്ഷയുള്ള ഒരു കണ്ടത്തെൽ തന്റെ സ്വന്തം എന്ന രീതിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ തടയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പേറ്റന്റിന്റെ പരിധിയിൽ വരുന്ന ഒരു കണ്ടുപിടുത്തം മറ്റാരെങ്കിലും വിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ തടയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പേറ്റന്റിന്റെ പരിധിയിൽ വരുന്ന ഒരു കണ്ടുപിടുത്തം മറ്റാരെങ്കിലും വിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ തടയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പേറ്റന്റിന്റെ പരിധിയിൽ വരുന്ന ഒരു കണ്ടുപിടുത്തം മറ്റാരെങ്കിലും മാർക്കറ്റ് ചെയ്യുകയാണെങ്കിലും ആ വ്യക്തിയെ തടയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പേറ്റന്റിന്റെ പരിധിയിൽ വരുന്ന ഒരു കണ്ടുപിടുത്തം മറ്റാരെങ്കിലും മാർക്കറ്റ് ചെയ്യുകയാണെങ്കിലും ആ വ്യക്തിയെ തടയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അതായത് ലംഘനം ശ്രദ്ധയിൽ പെട്ടാൽ നിങ്ങൾക്ക് അത് തടയാൻ കഴിയും അതായത് ലംഘനം ശ്രദ്ധയിൽ പെട്ടാൽ നിങ്ങൾക്ക് അത് തടയാൻ കഴിയും ഒരു ലംഘനത്തിന് എതിരെ നിങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയും ഒരു ലംഘനത്തിന് എതിരെ നിങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയും നിയമലംഘനത്തിന്റെ എല്ലാ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ ബിസിനസ്സ് പ്രവർത്തനങ്ങളാണ് നിയമലംഘനത്തിന്റെ എല്ലാ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ ബിസിനസ്സ് പ്രവർത്തനങ്ങളാണ് അവ വാണിജ്യപരമായ പ്രവർത്തനങ്ങളാണ് അവ വാണിജ്യപരമായ പ്രവർത്തനങ്ങളാണ് അതിനാൽ പേറ്റന്റിംഗ് ബിസിനസ്സ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ പേറ്റന്റിംഗ് ബിസിനസ്സ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ബിസിനസുമായി അന്തർലീനമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് വാണിജ്യപരമായ ഒരു ആഹ്വാനമാണ് ഇത് ബിസിനസുമായി അന്തർലീനമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് വാണിജ്യപരമായ ഒരു ആഹ്വാനമാണ് അല്ലെങ്കിൽ ഒരു നിക്ഷേപകൻ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് അയാൾ നിക്ഷേപിക്കുന്ന പണത്തിന് സാധ്യമായ വരുമാനം തിരികെ ലഭിക്കുമോ എന്ന് അറിയുന്നതിന് ഏറ്റെടുക്കേണ്ട ഒരു ആഹ്വാനമാണ് അല്ലെങ്കിൽ ഒരു നിക്ഷേപകൻ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് അയാൾ നിക്ഷേപിക്കുന്ന പണത്തിന് സാധ്യമായ വരുമാനം തിരികെ ലഭിക്കുമോ എന്ന് അറിയുന്നതിന് ഏറ്റെടുക്കേണ്ട ഒരു ആഹ്വാനമാണ് പേറ്റന്റിംഗ് കണ്ടെത്തലുകളുടെ ഒരു പുതിയ വ്യവസായത്തിന് അല്ലെങ്കിൽ കമ്പോളത്തിന് കാരണമാകുന്നു പേറ്റന്റിംഗ് കണ്ടെത്തലുകളുടെ ഒരു പുതിയ വ്യവസായത്തിന് അല്ലെങ്കിൽ കമ്പോളത്തിന് കാരണമാകുന്നു ഒരു പുതിയ വ്യവസായത്തിന്റെയോ കമ്പോളത്തിന്റെയോ സൃഷ്ടിപ്പിന് കാരണമായേക്കാവുന്ന കണ്ടെത്തലുകൾ ഉണ്ടാകാറുണ്ട് ഒരു പുതിയ വ്യവസായത്തിന്റെയോ കമ്പോളത്തിന്റെയോ സൃഷ്ടിപ്പിന് കാരണമായേക്കാവുന്ന കണ്ടെത്തലുകൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇപ്രകാരം സംഭവിക്കാറില്ല ഇപ്പോൾ ഇപ്രകാരം സംഭവിക്കാറില്ല എന്നാൽ ആദ്യകാലങ്ങളിൽ ഒരു കണ്ടെത്തൽ ഒരു പുതിയ വ്യവസായമോ കമ്പോളമോ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചാൽ മാത്രമേ പേറ്റന്റുകൾ അനുവദിച്ചിരുന്നുള്ളു എന്നാൽ ആദ്യകാലങ്ങളിൽ ഒരു കണ്ടെത്തൽ ഒരു പുതിയ വ്യവസായമോ കമ്പോളമോ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചാൽ മാത്രമേ പേറ്റന്റുകൾ അനുവദിച്ചിരുന്നുള്ളു കണ്ടെത്തലുകൾക്ക് പുതിയ വിപണികൾ സൃഷ്ടിക്കാൻ കഴിയും കണ്ടെത്തലുകൾക്ക് പുതിയ വിപണികൾ സൃഷ്ടിക്കാൻ കഴിയും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകാൻ അവയ്ക്ക് കഴിയും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകാൻ അവയ്ക്ക് കഴിയും നിലവിലുള്ള ഒരു പ്രശ്നത്തെ പുനർനിർവചിക്കാനും പരിഹരിക്കാനും കണ്ടത്തെലുകൾക്ക് കഴിയും നിലവിലുള്ള ഒരു പ്രശ്നത്തെ പുനർനിർവചിക്കാനും പരിഹരിക്കാനും കണ്ടത്തെലുകൾക്ക് കഴിയും അവയ്ക്ക് ഒരു പുതിയ പ്രശ്നം തിരിച്ചറിയാനും പരിഹരിക്കാനും കഴിയും അവയ്ക്ക് ഒരു പുതിയ പ്രശ്നം തിരിച്ചറിയാനും പരിഹരിക്കാനും കഴിയും പേറ്റന്റ് ഡ്രാഫ്റ്റിംഗിൽ വളരെയധികം സാധ്യതയുണ്ടെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസിലാകും പേറ്റന്റ് ഡ്രാഫ്റ്റിംഗിൽ വളരെയധികം സാധ്യതയുണ്ടെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസിലാകും കാരണം നിലവിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമായി നിങ്ങൾ ഒരു കണ്ടെത്തൽ നടത്തിയാൽ നേരത്തെ പറഞ്ഞത് പോലെ അത് സാങ്കേതിക മുന്നേറ്റത്തിന്റെ പ്രകടനമായിരിക്കും കാരണം നിലവിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമായി നിങ്ങൾ ഒരു കണ്ടെത്തൽ നടത്തിയാൽ നേരത്തെ പറഞ്ഞത് പോലെ അത് സാങ്കേതിക മുന്നേറ്റത്തിന്റെ പ്രകടനമായിരിക്കും മാത്രമല്ല അത് നിങ്ങളുടെ കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യാവുന്ന ഒരു കണ്ടത്തെലായി കാണാക്കപ്പെടുന്നതിനുള്ള യോഗ്യതയുമായിരിക്കും മാത്രമല്ല അത് നിങ്ങളുടെ കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യാവുന്ന ഒരു കണ്ടത്തെലായി കാണാക്കപ്പെടുന്നതിനുള്ള യോഗ്യതയുമായിരിക്കും നിലവിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ പുനർനിർവചിച്ച് പരിഹരിച്ചാൽ അത് നിങ്ങളുടെ കണ്ടത്തലിന് ഒരു കണ്ടെത്തൽഘട്ടം കാണിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് നിലവിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ പുനർനിർവചിച്ച് പരിഹരിച്ചാൽ അത് നിങ്ങളുടെ കണ്ടത്തലിന് ഒരു കണ്ടെത്തൽഘട്ടം കാണിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് മാത്രമല്ല നിങ്ങൾ ഒരു പുതിയ പ്രശ്നം തിരിച്ചറിയുകയും പരിഹരിക്കുകയും ചെയ്യുന്നതും നിങ്ങളുടെ കണ്ടെത്തലിൽ ഒരു കണ്ടെത്തൽഘട്ടം ഉൾപ്പെടുന്നുവെന്ന് കാണിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് മാത്രമല്ല നിങ്ങൾ ഒരു പുതിയ പ്രശ്നം തിരിച്ചറിയുകയും പരിഹരിക്കുകയും ചെയ്യുന്നതും നിങ്ങളുടെ കണ്ടെത്തലിൽ ഒരു കണ്ടെത്തൽഘട്ടം ഉൾപ്പെടുന്നുവെന്ന് കാണിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഈ 3 കാര്യങ്ങളിലും പൊതുവായുള്ളത് കണ്ടത്തെലുകളിലൂടെ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട് എന്നതാണ് ഈ 3 കാര്യങ്ങളിലും പൊതുവായുള്ളത് കണ്ടത്തെലുകളിലൂടെ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട് എന്നതാണ് കണ്ടെത്തലുകളിലൂടെ പലപ്പോഴും നിർണ്ണായകമായ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത് കണ്ടെത്തലുകളിലൂടെ പലപ്പോഴും നിർണ്ണായകമായ പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത് ഈ മേഖലയിൽ ഉള്ളവർക്ക് അത്തരമൊരു വൈദഗ്ദ്യം ആവശ്യമാണ് ഈ മേഖലയിൽ ഉള്ളവർക്ക് അത്തരമൊരു വൈദഗ്ദ്യം ആവശ്യമാണ് അങ്ങെനെയെങ്ങിൽ മാത്രമേ പേറ്റന്റ് ഓഫീസിൽ നിന്ന് കണ്ടെത്തൽ ഘട്ട നടപടിക്ക് എതിരായി ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ള ആക്ഷേപങ്ങളെ മറികടക്കാൻ കഴിയുകയുള്ളു അങ്ങെനെയെങ്ങിൽ മാത്രമേ പേറ്റന്റ് ഓഫീസിൽ നിന്ന് കണ്ടെത്തൽ ഘട്ട നടപടിക്ക് എതിരായി ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ള ആക്ഷേപങ്ങളെ മറികടക്കാൻ കഴിയുകയുള്ളു അതിനാൽ ഒരു പ്രശ്നമുണ്ടെന്നും നിങ്ങളുടെ കണ്ടെത്തൽ ആ പ്രശ്നം പരിഹരിച്ചെന്നും നിങ്ങൾ പറയുമ്പോൾ കണ്ടെത്തൽഘട്ട നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന എതിർപ്പുകൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അതിനാൽ ഒരു പ്രശ്നമുണ്ടെന്നും നിങ്ങളുടെ കണ്ടെത്തൽ ആ പ്രശ്നം പരിഹരിച്ചെന്നും നിങ്ങൾ പറയുമ്പോൾ കണ്ടെത്തൽഘട്ട നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന എതിർപ്പുകൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും കാരണം നിങ്ങൾ പരിഹരിച്ച പ്രശ്നം വ്യവസായത്തിൽ നിലവിലുണ്ടായിരുന്നു മറ്റാരും അത് പരിഹരിച്ചിരുന്നുമില്ല കാരണം നിങ്ങൾ പരിഹരിച്ച പ്രശ്നം വ്യവസായത്തിൽ നിലവിലുണ്ടായിരുന്നു മറ്റാരും അത് പരിഹരിച്ചിരുന്നുമില്ല മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് നിങ്ങൾ പരിഹരിച്ചത് കൊണ്ട് നിങ്ങളുടെ കണ്ടെത്തൽ വ്യക്തമാണെന്ന് നിങ്ങൾക്ക് വാദിക്കാം മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് നിങ്ങൾ പരിഹരിച്ചത് കൊണ്ട് നിങ്ങളുടെ കണ്ടെത്തൽ വ്യക്തമാണെന്ന് നിങ്ങൾക്ക് വാദിക്കാം